ഈ മൊഡ്യൂളിൽ വ്യാവസായിക ഐഒടിയുടെ ചില അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആരംഭിക്കുന്നതിന് വിവിധ വ്യാവസായിക പ്രക്രിയകൾ വ്യാവസായിക പ്രക്രിയകൾ എന്തൊക്കെയാണ് വ്യാവസായിക പ്രക്രിയകളിൽ IoT സംയോജിപ്പിക്കുന്നതിന് മനസ്സിലാക്കേണ്ട വ്യാവസായിക പ്രക്രിയകളുടെ ചില പ്രധാന വശങ്ങൾ എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും ഒന്നാമതായി പതിറ്റാണ്ടുകളായി വ്യാവസായിക വിപ്ലവം എങ്ങനെ സംഭവിച്ചുവെന്ന് നമുക്ക് ചിന്തിക്കാം 1770 മുതൽ 1800 വരെയുള്ള കാലഘട്ടത്തിലെ യന്ത്രവൽക്കരണത്തെ കുറിച്ചുള്ള ഇൻഡസ്ട്രി 1 0 ഉപയോഗിച്ചാണ് ഇത് ആരംഭിച്ചത് അതിനാൽ ഇത് ഇൻഡസ്ട്രി 1 0 ആയിരുന്നു അത് യന്ത്രവൽക്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പിന്നീട് 1870 മുതൽ 1950 വരെയുള്ള കാലഘട്ടത്തിൽ ഇൻഡസ്ട്രി 2 0 വന്നു അത് വൻതോതിലുള്ള ഉൽപ്പാദനത്തെക്കുറിച്ചായിരുന്നു പിന്നീട് 1950 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ ഇൻഡസ്ട്രി 3 0 വിപ്ലവം വന്നു അത് വ്യവസായങ്ങളിൽ കമ്പ്യൂട്ടറുകളും ഓട്ടോമേഷനും സംയോജിപ്പിക്കുന്നതായിരുന്നു നൂതന കമ്പ്യൂട്ടറുകൾ ഓട്ടോമേഷൻ കമ്മ്യൂണിക്കേഷൻ സെൻസറുകൾ സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങൾ ഐഒടി എന്നിവയുടെ സഹായത്തോടെ വ്യാവസായിക പ്രക്രിയകളുടെ പരിവർത്തനത്തെക്കുറിച്ചാണ് ഇൻഡസ്ട്രി 4 0 കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംഭവിക്കുന്നത് ഇൻഡസ്ട്രി 4 0 അടുത്തിടെ നടന്നതാണ് ആഗോളതലത്തിൽ വ്യവസായ രംഗത്തെ വിപ്ലവമാണ് ഇപ്പോൾ നടക്കുന്നത് ഇൻഡസ്ട്രി 3 0 യുടെ കാര്യത്തിൽ കമ്പ്യൂട്ടറുകളും ഉപയോഗിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഓട്ടോമേഷൻ ചെയ്തു വേറിട്ട വേറിട്ട ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വിതരണ ശൃംഖലയിൽ നിന്ന് വേറിട്ട് പ്രക്രിയകൾ ഓട്ടോമേറ്റ് ചെയ്യപ്പെടുമെന്ന് നമുക്ക് പറയാം അതിനാൽ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് എല്ലാം വെവ്വേറെ ചെയ്തു ഇൻഡസ്ട്രി 4 0 ന്റെ നിലവിലെ തലമുറയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരേ ഓട്ടോമേഷനെക്കുറിച്ചാണ് എന്നാൽ ഇവിടെ വ്യവസായത്തിൽ സമ്പൂർണ്ണ സ്വയംഭരണ സംവിധാനങ്ങൾ ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവിടെ ഈ വ്യക്തിഗത പ്രത്യേക ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങളും പരസ്പരം സംസാരിക്കും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കും അതിനാൽ ഇൻഡസ്ട്രി 4 0 ന്റെ പശ്ചാത്തലത്തിൽ ആശയവിനിമയം വളരെ പ്രധാനമാണ് കാരണം ഞങ്ങൾ എല്ലാം ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇൻഡസ്ട്രി 4 0 വളരെ ജനപ്രിയമായി ഈ പ്രത്യേക പ്ലോട്ടിൽ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് പ്രതിരോധം ഗതാഗതം കെമിക്കൽ ഓട്ടോമോട്ടീവ് നിർമ്മാണം തുടങ്ങിയ വിവിധ മേഖലകൾക്കായി നിലവിലെ ഉൽപ്പാദനം എന്താണ് നിലവിലെ വളർച്ച അതുമായി ബന്ധപ്പെട്ട് പ്രവചിച്ച വളർച്ച എത്രയാണ് ഉദാഹരണത്തിന് ഇലക്ട്രോണിക്സ് വിപണിയിൽ നിലവിലെ വളർച്ചാ പ്രവണത ഏകദേശം 40 മുതൽ 50 ശതമാനം വരെയാണ് ഇൻഡസ്ട്രി 4 0 IIoT സംയോജിപ്പിച്ച് ഇത് പ്രവചിക്കപ്പെടുന്നു വളർച്ച 70 ൽ നിന്ന് 80 ലേക്ക് ത്വരിതപ്പെടുത്താൻ പോകുന്നു ഇത് ഒരു വലിയ കുതിച്ചുചാട്ടമാണ് അതുപോലെ ഉൽപ്പാദനത്തിനും പ്രതിരോധത്തിനും സമാനമായ വളർച്ചാ രീതി കാണാം ഇൻഡസ്ട്രി 4 0 ഇൻഡസ്ട്രിയൽ ഐഒടി എന്നിവയുടെ സംയോജനത്തോടെ വ്യാവസായിക മേഖലകളിലും വിവിധ വ്യാവസായിക മേഖലകളിലും വരാൻ പോകുന്ന വളർച്ചയിലെ വലിയ കുതിച്ചുചാട്ടങ്ങളാണ് ഇവയെല്ലാം അതിനാൽ വ്യാവസായിക ഐഒടിയുടെ ചില അടിസ്ഥാനകാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വ്യാവസായിക IoT പ്രധാനമായും വ്യവസായങ്ങൾക്ക് IoT ആണ് അതിനാൽ ആദ്യ മൊഡ്യൂളിലെ അടിസ്ഥാനകാര്യങ്ങളിൽ ഐഒടിയിൽ നമ്മൾ പഠിച്ചതെന്തും ഇവിടെയും എല്ലാം ബാധകമാണ് പക്ഷേ ഇവിടെ അധികമായി നമ്മൾ സംസാരിക്കുന്നത് വ്യാവസായിക യന്ത്രങ്ങൾ വ്യാവസായിക കാര്യങ്ങൾ അടിസ്ഥാനപരമായി വ്യാവസായിക യന്ത്രങ്ങൾ സെൻസറുകളും ആക്യുവേറ്ററുകളും ഉപയോഗിച്ച് അവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വ്യാവസായിക വസ്തുക്കൾ എന്നിവയെക്കുറിച്ചാണ് വ്യാവസായിക പ്രക്രിയകൾ അവയുടെ കാര്യക്ഷമത ഉൽപ്പാദനക്ഷമത എന്നിവ മൊത്തത്തിൽ മെച്ചപ്പെടുത്തുന്നു വ്യാവസായിക ഐഒടിയിൽ നമ്മൾ സംസാരിക്കുന്നത് വ്യത്യസ്ത വ്യാവസായിക വസ്തുക്കളുടെയോ വ്യത്യസ്ത എംബഡ് ചെയ്ത ഒബ്ജക്റ്റുകളോ ഉള്ള വ്യത്യസ്ത കമ്പ്യൂട്ടേഷനും ആശയവിനിമയ സൌകര്യങ്ങളും നിർവഹിക്കാൻ കഴിയുന്ന ഒബ്ജക്റ്റുകളുടെ നെറ്റ്വർക്കിംഗിനെക്കുറിച്ചാണ് പരസ്പരം വിവരങ്ങൾ കൈമാറുന്നതിലൂടെ അവർക്ക് ഒരുമിച്ച് വ്യാവസായിക ജോലികൾ നേടാനാകും അടിസ്ഥാനപരമായി സെൻസിംഗ് ആക്ച്വേഷൻ കമ്പ്യൂട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ വ്യാവസായിക പ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിനായി വ്യാവസായിക ക്രമീകരണത്തിൽ എല്ലാം ഒന്നിച്ചുചേർക്കുകയും വ്യവസായങ്ങളിലെ വ്യത്യസ്ത യന്ത്രങ്ങളെ മികച്ചതാക്കുകയും ചെയ്യുന്നു അതിനാൽ സ്മാർട്ട് മെഷിനറി എന്നർത്ഥം വരുന്ന സ്മാർട്ട് ഒബ്ജക്റ്റുകളായി നമുക്ക് IIoT യുടെ വ്യത്യസ്ത ഘടകങ്ങൾ ഉണ്ടാകും അതിനാൽ അടിസ്ഥാനപരമായി നമ്മൾ സംസാരിക്കുന്ന ഈ വ്യാവസായിക വസ്തുക്കളെല്ലാം മികച്ചതാക്കാൻ കഴിയും നെറ്റ്വർക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ടായിരിക്കണം കാരണം മറ്റെവിടെയെങ്കിലും ക്ലൌഡ് ആകാം അത് സെർവർ ആകാം സെർവർ ഫോമുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോസസ്സിംഗിനായി ഡാറ്റ ഈ സ്മാർട്ട് ഒബ്ജക്റ്റുകളിൽ നിന്ന് മറ്റെവിടെയെങ്കിലും അയയ്ക്കേണ്ടതുണ്ട് അപ്പോൾ ബിസിനസ്സ് ബുദ്ധിയാണ് മറ്റൊരു ഘടകം ഈ വ്യത്യസ്ത സ്മാർട്ട് ഒബ്ജക്റ്റുകളിൽ നിന്ന് എല്ലാ ഡാറ്റയും ശേഖരിക്കുകയും ബിസിനസ്സ് പ്രക്രിയകൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതു പോലെയാണ് ബിസിനസ് ഇന്റലിജൻസ് അർത്ഥമാക്കുന്നത് ബിസിനസ്സ് ഫലങ്ങൾ പ്രവചിക്കുക വ്യത്യസ്ത ബുദ്ധിയുടെ സംയോജനത്തിലൂടെ ബിസിനസ്സ് ഫലങ്ങളിൽ മെച്ചപ്പെടുത്തൽ അതിനാൽ മെഷീൻ ഇന്റലിജൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇടപെടൽ തുടങ്ങിയ വ്യത്യസ്ത പ്രവചന സാങ്കേതികതകൾ ബിസിനസ്സ് ഇന്റലിജൻസ് മെച്ചപ്പെടുത്തുന്നതിന് ഈ സാങ്കേതികതകളെല്ലാം സംയോജിപ്പിക്കും അവസാനത്തേത് ലൂപ്പിലുള്ള ആളുകളാണ് ലൂപ്പിലുള്ള ആളുകൾ അർത്ഥമാക്കുന്നത് തീരുമാനമെടുക്കുന്നവരെപ്പോലെ മറ്റ് മറ്റ് പങ്കാളികളെപ്പോലെ അവരും ലൂപ്പിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഈ വ്യത്യസ്ത വസ്തുക്കൾ ബന്ധിപ്പിച്ച വസ്തുക്കൾ മാത്രമല്ല എല്ലാവരും ഒരുമിച്ച് വ്യാവസായിക ഐഒടിയുടെ മെച്ചപ്പെട്ട ആവാസവ്യവസ്ഥ കൈവരിക്കും അതിനാൽ ഇൻഡസ്ട്രി 4 0 ഇക്കോസിസ്റ്റത്തിൽ IIoT ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഇൻഡസ്ട്രി 4 0 ലേക്ക് തിരിഞ്ഞുനോക്കുമ്പോൾ വ്യാവസായിക പ്രക്രിയകൾക്ക് വ്യത്യസ്ത വെല്ലുവിളികൾ നേരിടേണ്ടിവരും അതിനാൽ അടിസ്ഥാനപരമായി വ്യാവസായിക പ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിന് IIoT സ്വീകരിക്കുന്നത് വ്യത്യസ്ത വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ പോകുന്നു അതിനാൽ വ്യത്യസ്ത രീതികളിൽ തരംതിരിക്കുന്ന ഈ വ്യത്യസ്ത വെല്ലുവിളികളിൽ ചിലത് ഇവയാണ് ആദ്യത്തേത് ചലനാത്മക വിപണി സാഹചര്യങ്ങളെക്കുറിച്ചാണ് അതിനാൽ ഉയർന്ന അപകടസാധ്യതയുള്ള വിപണി ചെലവ് കുറയ്ക്കുന്നതിനുള്ള ലക്ഷ്യം മുതലായവയെക്കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് അതിനാൽ IIoT സംയോജിപ്പിച്ച് നിങ്ങൾ ക്രമേണ ഇൻഡസ്ട്രി 4 0 ലേക്ക് മാറുകയാണെങ്കിൽ ഇവയാണ് സംഭവിക്കാൻ പോകുന്നത് നിയന്ത്രിത തൊഴിൽ ശക്തി എന്നതിനർത്ഥം ഇതിനകം നിലവിലുള്ള തൊഴിൽ ശക്തിക്ക് വ്യാവസായിക IoT സ്വീകരിക്കാൻ ഇതിനകം വൈദഗ്ധ്യം ഇല്ല അവർക്ക് ആവശ്യമായ കഴിവുകൾ ഇതിനകം ഇല്ല അതിനാൽ അവർക്കില്ല അതിനാൽ അവർ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം അതായത് ഇൻഡസ്ട്രി 4 0 പാലിക്കുന്നതിനും ഈ വ്യാവസായിക പ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിനും IIoT ഉപയോഗിക്കുന്നതിന് തൊഴിൽ ശക്തിക്ക് വൈദഗ്ദ്ധ്യം ഉണ്ടായിരിക്കണം സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഈ വ്യാവസായിക പ്രക്രിയകളിൽ IIoT സംയോജിപ്പിക്കുന്നതിനാൽ ഇവിടെയുള്ള വെല്ലുവിളികൾ ഉയർന്ന വഴക്കവും സൌകര്യവും പ്രതീക്ഷിക്കുന്നു അതിനാൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ഉയർന്ന വഴക്കം പ്രതീക്ഷിക്കുന്നു മാധ്യമസ്വാധീനവും ഉണ്ടാകാൻ പോകുന്നതിനാൽ ഇക്കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടിവരും റിസോഴ്സ് വിനിയോഗം ലഭ്യമായ വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിനിയോഗം പ്രതീക്ഷിക്കുന്നത് വിഭവ വിനിയോഗം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒപ്പം വൃത്തിയും മാലിന്യ നിർമാർജനവും വർധിപ്പിക്കണം അതിനാൽ ഇവയെല്ലാം പ്രയോജനകരമാണ് എന്നാൽ അതേ സമയം ഇവ വെല്ലുവിളി നിറഞ്ഞതുമാണ് ശരിയായ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ഉപയോഗിച്ച് ഞങ്ങൾ വേണ്ടത്ര ചെയ്യേണ്ടതുണ്ട് ഉൽപ്പന്ന മാനേജ്മെന്റ് എന്നത് വർദ്ധിച്ച ഉൽപ്പന്ന തരങ്ങളെ കുറിച്ചാണ് മുമ്പ് ബന്ധിപ്പിച്ചിട്ടില്ലാത്ത വ്യത്യസ്ത വൈവിധ്യമാർന്ന ഘടകങ്ങൾ വൈവിധ്യമാർന്ന യന്ത്രങ്ങൾ എന്നിവ ഇവിടെ സംയോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ക്ഷണിക്കുന്ന വെല്ലുവിളി എന്തെന്നാൽ ഞങ്ങൾക്ക് ധാരാളം വ്യത്യസ്ത തരം ഉൽപ്പന്നങ്ങൾ ഉണ്ട് അവ പരസ്പരം ബന്ധിപ്പിക്കേണ്ടതുണ്ട് തൽഫലമായി സംഭവിക്കാൻ പോകുന്നത് ഉൽപ്പന്ന ജീവിത ചക്രം മാറാൻ പോകുന്നു എന്നതാണ് ഒരു ഉൽപ്പന്നം വികസിപ്പിച്ചെടുക്കുന്ന സമയത്തിന്റെ ദൈർഘ്യത്തിന്റെ എണ്ണം കുറയും ഇവയെല്ലാം പ്രയോജനകരമാണ് എന്നാൽ അതേ സമയം ഇൻഡസ്ട്രി 4 0 അനുസരിക്കുന്നതിന് ആവശ്യമായ വ്യാവസായിക പ്രക്രിയകൾക്കും ഇത് വെല്ലുവിളികൾ ഉയർത്തും അതിനാൽ വ്യാവസായിക പ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിന് IIoT ഉൾപ്പെടുത്തിയതിന് പിന്നിലെ ഡിസൈൻ തത്വശാസ്ത്രം നമുക്ക് നോക്കാം ആദ്യത്തെ കാര്യം അതിനാൽ ഞങ്ങൾ പരിഗണിച്ച നാല് വ്യത്യസ്ത വശങ്ങളുണ്ട് നമ്പർ ഒന്ന് ഇന്റർഓപ്പറബിളിറ്റി രണ്ടാമത്തേത് വിതരണം ചെയ്ത തീരുമാനങ്ങൾ മൂന്നാമത്തേത് വിവര വ്യക്തത നാലാമത്തേത് സാങ്കേതിക സഹായം അതിനാൽ നമുക്ക് ഓരോന്നായി എടുക്കാം പരസ്പര പ്രവർത്തനക്ഷമത എന്നത് വൈവിധ്യമാർന്ന വസ്തുക്കൾ തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതാണ് വൈവിധ്യമാർന്ന വസ്തുക്കൾ തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കുന്നു വ്യത്യസ്തവും വ്യത്യസ്തവുമായ പ്രവർത്തിക്കുന്ന വൈവിധ്യമാർന്ന യന്ത്രങ്ങൾ കാരണം ഇവ ഇപ്പോൾ സ്മാർട്ട് വസ്തുക്കളാണ് IIoT ലോകത്ത് നമ്മൾ സംസാരിക്കുന്നത് സ്മാർട്ട് മെഷിനറികളെക്കുറിച്ചും സ്മാർട്ട് ഒബ്ജക്റ്റുകളെക്കുറിച്ചും ആണ് ഇവയെല്ലാം വൈവിധ്യപൂർണ്ണമാണ് ഇപ്പോൾ നിങ്ങൾ അവർക്കിടയിൽ ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്നു അതാണ് ഇൻഡസ്ട്രി 4 0 ന്റെ ലക്ഷ്യം രണ്ടാമത്തെ കാര്യം ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻ മേക്കിംഗ് ആണ് കാരണം ഈ വ്യത്യസ്ത യന്ത്രങ്ങൾ ഭൌതിക വസ്തുക്കളും മറ്റും അവ ഇപ്പോൾ ഇൻഡസ്ട്രി 4 0 ൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ വിതരണം ചെയ്ത തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അതിനാൽ ഈ വ്യത്യസ്ത യന്ത്രങ്ങൾ ഓരോന്നും പ്രാദേശികമായി ചില തീരുമാനങ്ങൾ സ്വയം നിർവ്വഹിക്കും ചില അനലിറ്റിക്സ് അവയിൽ വ്യക്തിഗതമായി നടത്തപ്പെടും ഒപ്പം ഒരുമിച്ച് അവർ എന്തെങ്കിലും ചെയ്യേണ്ടിവരും സമഗ്രമായ നന്മയ്ക്കായി അതിനാൽ മൂന്നാമത്തേത് വിവര വ്യക്തതയാണ് അവിടെ നമ്മൾ വസ്തുക്കളുടെ ദൃശ്യവൽക്കരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ അടിസ്ഥാനപരമായി ഈ വ്യത്യസ്ത വസ്തുക്കളെല്ലാം ഈ വ്യത്യസ്ത വസ്തുക്കളുടെ ഡിജിറ്റൽ മോഡലുകൾ ഈ ഒബ്ജക്റ്റുകളിൽ നിന്ന് സംഭരിക്കുന്ന ഡാറ്റ ഇവ ദൃശ്യവൽക്കരിക്കേണ്ടതുണ്ട് വിവര വ്യക്തതയ്ക്കായി അതിന്റെ ഡാറ്റ ദൃശ്യവൽക്കരണ വശം ഡിസൈൻ ഫിലോസഫിയുടെ മൂന്നാമത്തെ ഘടകം ഇതാണ് നാലാമത്തേത് സാങ്കേതിക സഹായമാണ് മനുഷ്യന്റെ ഇടപെടൽ കുറയ്ക്കുന്നതിന് സ്മാർട്ട് ഒബ്ജക്റ്റുകളെ ശാക്തീകരിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് വ്യാവസായിക പ്രക്രിയകൾക്കായി IIoT യുടെ ഡിസൈൻ ഫിലോസഫിയിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക സഹായവും ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ ഇൻഡസ്ട്രി 4 0 ഉള്ള വ്യാവസായിക പ്രക്രിയകളുടെ പ്രതീക്ഷിക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ് എന്താണ് നേടാൻ പോകുന്നത് എന്താണ് കൈവരിക്കാൻ പോകുന്നത് അതിനാൽ നമ്പർ 1 കാര്യക്ഷമതയാണ് അതിനാൽ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനാണ് ഞങ്ങൾ എല്ലാം ചെയ്യുന്നത് തീർച്ചയായും ഇത് കുറച്ച് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള വെല്ലുവിളികൾ കൊണ്ടുവരുന്നു എന്നാൽ മൊത്തത്തിൽ വ്യാവസായിക പ്രക്രിയകളിലെ കാര്യക്ഷമത വ്യാവസായിക ഐഒടിയുടെ സംയോജനത്തോടെ മെച്ചപ്പെടുത്താൻ പോകുന്നു അതിനാൽ അടിസ്ഥാനപരമായി കാര്യക്ഷമത എന്നതിനർത്ഥം നമ്മൾ സംസാരിക്കുന്നത് ബുദ്ധിയുള്ള യന്ത്രങ്ങളെക്കുറിച്ചാണ് കാര്യങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിനെക്കുറിച്ചാണ് അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ വിഭവങ്ങൾ ഊർജ്ജത്തിന്റെ കാര്യക്ഷമമായ വിനിയോഗം ജലത്തിന്റെ കാര്യക്ഷമമായ വിനിയോഗം അല്ലെങ്കിൽ മറ്റ് വിഭവങ്ങൾ ഉപയോഗിക്കുന്ന മറ്റ് വസ്തുക്കൾ എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും വ്യാവസായിക ഐഒടിയുടെ സംയോജനത്തോടെ ഇവയെല്ലാം കാര്യക്ഷമമാകും കൂടാതെ ഈ വിഭവങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുന്നതും സംഭവിക്കാൻ പോകുന്നു അതിനാൽ മൊത്തത്തിലുള്ള കാര്യക്ഷമത വിഭവ വിനിയോഗം വിഭവ വിനിയോഗത്തിൽ കുറവ് ഇവയാണ് ഇൻഡസ്ട്രിയൽ ഐഒടിയുടെ സംയോജനത്തോടെ വരാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യം മത്സരക്ഷമതയാണ് വ്യാവസായിക ഐഒടി യുഗത്തിൽ എല്ലാം ഡാറ്റ ഡ്രൈവ് ചെയ്യപ്പെടാൻ പോകുന്നു ഈ വിതരണം ചെയ്ത എല്ലാ യന്ത്രങ്ങളിൽ നിന്നും ഡാറ്റ വരാൻ പോകുന്നു ഇത് ഒരു പ്രത്യേക വ്യവസായത്തിനുള്ളിൽ പ്രാദേശികമായിരിക്കില്ല വ്യത്യസ്ത വ്യവസായത്തിൽ ഉടനീളം മാത്രമല്ല നിങ്ങൾക്ക് ഇത് ആഗോള തലത്തിലേക്ക് ഉയർത്താനും കഴിയും അതിനാൽ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ആഗോള ബിസിനസ്സ് മോഡലിംഗ് ആണ് ആഗ്രഹിക്കുന്നത് അതിനാൽ എല്ലാവരും പരസ്പരം മത്സരിക്കാൻ പോകുന്നു എന്നാൽ ഈ വ്യത്യസ്ത വ്യവസായങ്ങളിൽ ഓരോന്നും വ്യക്തിഗതമായി ഈ മത്സരശേഷി മെച്ചപ്പെടുത്തുന്നതിനുള്ള അടിസ്ഥാനമായി ഡാറ്റ വർത്തിക്കും മൂന്നാമത്തേത് തൊഴിൽ ശക്തിയാണ് IoT യുടെ ഈ ഡൊമെയ്നുകളിലെല്ലാം നൂതന വൈദഗ്ധ്യമുള്ള നൈപുണ്യമുള്ള തൊഴിൽ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ആ അറിവ് കെട്ടിപ്പടുക്കേണ്ടതുണ്ട് അതിനാൽ ഇത് മൂന്നാമത്തെ സവിശേഷതയാണ് നാലാമത്തെ സവിശേഷത നവീകരണത്തെക്കുറിച്ചാണ് അതിനാൽ മൊത്തത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഈ വ്യത്യസ്ത വസ്തുക്കൾ തമ്മിലുള്ള ബന്ധിപ്പിച്ച പെരുമാറ്റം എന്നിവയുടെ സംയോജനത്തിലൂടെയാണ് നിങ്ങൾ നൂതനത്വം വളർത്താനും കാര്യക്ഷമത മെച്ചപ്പെടുത്താനും പോകുന്നു ഇവയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഈ നവീകരണത്തിലൂടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക അവസാനമായി വ്യാവസായിക പ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിനായി IoT സംയോജിപ്പിക്കുന്നതിന്റെ ഒരു പ്രധാന സവിശേഷത കൂടിയാണിത് സാങ്കേതിക വിദ്യകളോട് പ്രതികരിക്കുന്ന വിപണിയിലെ മാറ്റങ്ങളോട് പ്രതികരിക്കുന്ന ചലനാത്മക വിതരണ ശൃംഖലകൾ ഉണ്ടായിരിക്കുന്നതിനുള്ള വഴക്കമാണിത് അതിനാൽ വ്യാവസായിക IoT അല്ലെങ്കിൽ ഇൻഡസ്ട്രി 4 0 നുള്ള വ്യാവസായിക പ്രക്രിയകളുടെ പ്രതീക്ഷിക്കുന്ന സവിശേഷതകളുടെ വ്യത്യസ്ത സവിശേഷതകളാണ് ഇവ അതിനാൽ നമുക്ക് IIoT ലോകത്ത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് വ്യാവസായിക പ്ലാന്റ് സാധാരണയായി എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അതിനാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇതുപോലുള്ള ഒന്നാണ് നമുക്ക് വ്യത്യസ്ത ഊർജ്ജ സ്രോതസ്സുകൾ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഉണ്ടാകാൻ പോകുന്നു ഒപ്പം സൌരോർജ്ജം കാറ്റ് തുടങ്ങിയ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളും കൂടാതെ പൂർണ്ണ അധിഷ്ഠിത ഊർജ്ജം വൈദ്യുതി വൈദ്യുതിയുടെ പരമ്പരാഗത രൂപങ്ങൾ എന്നിവ പോലെയുള്ള പരമ്പരാഗത മാർഗങ്ങൾ കൂടാതെ നിങ്ങൾക്ക് ഈ വ്യത്യസ്ത ഊർജ്ജ സ്രോതസ്സുകളും ഈ വിതരണവും ലോജിസ്റ്റിക്സും ഉണ്ട് അതിനാൽ വ്യാവസായിക വിഭവങ്ങൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇവ ഈ പ്രത്യേക പാളിയിൽ പരിഗണിക്കുന്നു അതിനാൽ ഈ വ്യാവസായിക പ്രക്രിയകൾ മെച്ചപ്പെടുത്താൻ ഇവ സഹായിക്കും നിർമ്മാണ പ്രക്രിയകൾ ഓട്ടോമേഷൻ 3D പ്രിന്റിംഗ് തുടങ്ങിയവ പോലെ ഈ പാളിയിലെ വ്യത്യസ്ത വ്യാവസായിക പ്രക്രിയകൾ പരിഗണിക്കും അതിനാൽ ഈ വ്യാവസായിക പ്രക്രിയകൾ പരമ്പരാഗതമോ പുനരുൽപ്പാദിപ്പിക്കാവുന്നതോ ആയ ഊർജ്ജത്തിന്റെയും വിതരണത്തിന്റെയും ലോജിസ്റ്റിക്സിന്റെയും സഹായത്തോടെ ഈ ഡാറ്റയിൽ കാണിക്കാൻ പോകുന്നു സെൻസറുകളുടെയും ആക്യുവേറ്ററുകളുടെയും സഹായത്തോടെ ഈ ഡാറ്റ യഥാർത്ഥത്തിൽ ശേഖരിക്കാൻ പോകുന്നു ഈ സ്മാർട്ട് ഒബ്ജക്റ്റുകൾ സ്മാർട്ട് കാര്യങ്ങൾ സ്മാർട്ട് മെഷിനറി എന്നിവ സെൻസിംഗ് ആക്ച്വേഷൻ കംപ്യൂട്ടേഷൻ ആശയവിനിമയം തീരുമാനമെടുക്കൽ എന്നിവയുമായി സ്പർശിക്കും ഈ ഡാറ്റയെല്ലാം കൂടുതൽ വിശകലനത്തിനായി ക്ലൌഡിലേക്ക് അയയ്ക്കും അതിനാൽ അനലിറ്റിക്സ് അടിസ്ഥാനമാക്കി ഉപഭോക്താക്കൾക്ക് അവരുടെ ഇഷ്ടാനുസൃതമാക്കിയ ആപ്ലിക്കേഷൻ ഡിമാൻഡിനെ അടിസ്ഥാനമാക്കി ഈ വ്യത്യസ്ത സേവനങ്ങളെല്ലാം ലഭിക്കും അതിനാൽ സൈബർ സുരക്ഷയും മറ്റൊരു പരിഗണനയാണ് പ്രത്യേകിച്ച് ക്ലൌഡിന്റെ പശ്ചാത്തലത്തിൽ സൈബർ സുരക്ഷയെക്കുറിച്ച് ആളുകൾക്ക് ധാരാളം പരിഗണനകളുണ്ട് സൈബർ സുരക്ഷ എന്നത് ഇൻഡസ്ട്രി 4 0 യുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിനകം സംസാരിച്ചിട്ടുള്ള ഒന്നാണ് അതിനാൽ സൈബർ സുരക്ഷ ഒരു അടിസ്ഥാന പരിഗണനയാണ് കാരണം ആളുകൾക്ക് താൽപ്പര്യമില്ല ആളുകൾ വളരെയധികം പരിഗണിക്കപ്പെടുന്നു വ്യത്യസ്ത വ്യവസായങ്ങളിലെ ഈ വ്യത്യസ്ത യന്ത്രങ്ങളിൽ നിന്ന് വരുന്ന ഡാറ്റയെക്കുറിച്ച് വളരെയധികം ആശങ്കയുണ്ട് ക്ലൌഡ് എൻഡിൽ ഡാറ്റ ഒഴുകുന്ന നെറ്റ്വർക്കിലൂടെയോ അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നിടത്തോ അവ വിട്ടുവീഴ്ച ചെയ്യരുത് അതിനാൽ വ്യാവസായിക ഐഒടിയുടെ പശ്ചാത്തലത്തിൽ ക്ലൌഡ് സുരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു പരിഗണനയാണ് അതിനാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഫ്യൂച്ചറിസ്റ്റിക് വ്യാവസായിക പ്ലാന്റിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 5C ആർക്കിടെക്ചർ ഇത് യഥാർത്ഥത്തിൽ ഒരു വാസ്തുവിദ്യയാണ് ഇത് സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങൾക്കായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ ഇൻഡസ്ട്രിയൽ ഐഒടിയെക്കുറിച്ചാണ് സംസാരിക്കുമ്പോൾ സെൻസറുകളും ആക്യുവേറ്ററുകളും വഴി ഈ സ്മാർട്ട് ഇന്റർഫേസുകളെല്ലാം ഉള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്ന കണക്റ്റഡ് മെഷിനറി അതിനാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ യന്ത്രസാമഗ്രികളെല്ലാം സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളായി പ്രവർത്തിക്കാൻ പോകുന്നു പിന്നെ എന്താണ് സൈബർ ഫിസിക്കൽ സിസ്റ്റം സൈബർ ഫിസിക്കൽ സിസ്റ്റം എന്നാൽ എന്താണ് അതിന്റെ വ്യത്യസ്ത ഗുണങ്ങൾ നമ്മൾ നേരത്തെ ഒരു പ്രഭാഷണത്തിൽ കണ്ടത് ഞങ്ങൾ മുമ്പ് ഒരു പ്രഭാഷണത്തിൽ കണ്ടു സൈബർ ഫിസിക്കൽ സിസ്റ്റം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങളും ഐഒടിയും ഉപയോഗിക്കുന്ന ഈ ഫ്യൂച്ചറിസ്റ്റ് ഇൻഡസ്ട്രിയൽ പ്ലാന്റിന്റെ വാസ്തുവിദ്യാ വീക്ഷണകോണിൽ നിന്ന് വ്യത്യസ്തമായ പരിഗണനകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക അതിനാൽ ഞങ്ങൾ കണക്ഷൻ ലെയറിൽ നിന്ന് ആരംഭിക്കും കണക്ഷൻ ലെയർ സംസാരിക്കുന്നത് വ്യത്യസ്ത സെൻസറുകളുടെ ഉപയോഗം സെൻസർ അധിഷ്ഠിത ഡാറ്റ ശേഖരണം പരസ്പര പ്രവർത്തനക്ഷമത ഒബ്ജക്റ്റുകളുടെ പ്രശ്നങ്ങൾ ഫിസിക്കൽ ഒബ്ജക്റ്റുകൾ സ്മാർട്ട് ഒബ്ജക്റ്റുകൾ ഈ വ്യത്യസ്ത വസ്തുക്കളുടെ പ്രവർത്തനക്ഷമത ഇവയെല്ലാം കണക്ഷൻ ലെയറിലെ പ്രശ്നങ്ങളാണ് തുടർന്ന് പരിവർത്തന പാളി വരുന്നു ഇവിടെ നമ്മൾ സെൻസർ റെക്കോർഡുകൾ മെഷീൻ ഹെൽത്ത് ഡാറ്റ മോണിറ്ററിംഗ് പ്രവചനം വിവര വ്യാഖ്യാനം മുതലായവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നിരുന്നാലും ഈ ലെയറിൽ നമ്മൾ സംസാരിക്കുന്നത് ഡാറ്റയെ വിവരങ്ങളാക്കി മാറ്റുന്നതിനെക്കുറിച്ചും അതിന്റെ വ്യാഖ്യാനത്തെക്കുറിച്ചും ആണ് തുടർന്ന് സൈബർ ലെയർ വരുന്നു സൈബർ ലെയർ അതിന്റെ ഈ നെറ്റ്വർക്കിംഗ് വശത്തെക്കുറിച്ച് സംസാരിക്കുന്നു സ്മാർട്ട് ഒബ്ജക്റ്റുകളുടെ നെറ്റ്വർക്ക് ഇന്റലിജന്റ് ഒബ്ജക്റ്റുകൾ അവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഐഡന്റിഫയർ ആവശ്യമാണ് ഈ ഒബ്ജക്റ്റുകളിൽ നിന്ന് വ്യത്യസ്ത ഡാറ്റ വീണ്ടെടുക്കാൻ പോകുന്നു നിങ്ങൾക്ക് ലഭിച്ച ഡാറ്റയെ മനസ്സിൽ പിടിക്കാൻ നിങ്ങൾ ഒരുതരം അനലിറ്റിക്സ് പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് കൂടാതെ ഒരുതരം അനലിറ്റിക്സും അനലിറ്റിക്സിന്റെ അടിസ്ഥാനകാര്യങ്ങളും ഞങ്ങൾ മുമ്പത്തെ പ്രഭാഷണത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് തുടർന്ന് കോഗ്നിറ്റീവ് ലെയർ കോഗ്നിറ്റീവ് ലെയർ അടിസ്ഥാനപരമായി ഒപ്റ്റിമൈസ് ചെയ്ത തീരുമാനമെടുക്കുന്നതിനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ ഇവിടെ നമ്മൾ ഡാറ്റ വിഷ്വലൈസേഷൻ മനുഷ്യർക്ക് വായിക്കാവുന്ന വ്യാഖ്യാനം മുതലായവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവസാനമായി കൺട്രോൾ ലെയർ ഇത് അടിസ്ഥാനപരമായി ആക്ച്വേഷൻ കൺട്രോൾ സൂപ്പർവൈസ്ഡ് കൺട്രോൾ പിന്നെ സെൽഫ് കോൺഫിഗറേഷൻ സെൽഫ് ഒപ്റ്റിമൈസേഷൻ സെൽഫ് അഡ്ജസ്റ്റ്മെന്റ് കൺട്രോൾ ലെയറിലെ വ്യത്യസ്ത വീക്ഷണങ്ങളിൽ വ്യത്യസ്തമാണ് സൈബർ ഫിസിക്കൽ സിസ്റ്റങ്ങൾക്കായുള്ള 5C ആർക്കിടെക്ചറിലെ പ്രധാനപ്പെട്ട പരിഗണനകളാണ് ഇവയെല്ലാം ഇപ്പോൾ ഇൻഡസ്ട്രി 4 0 കൺസെപ്റ്റ് വ്യത്യസ്ത കാര്യങ്ങളിൽ വ്യാവസായിക പ്രക്രിയകളുടെ വ്യത്യസ്ത പ്രാപ്തികൾ എന്തൊക്കെയാണ് ക്ലൌഡ് പ്ലാറ്റ്ഫോം സോഫ്റ്റ്വെയർ എ സേവനം പ്ലാറ്റ്ഫോം എ സേവനം ഇൻഫ്രാസ്ട്രക്ചർ എ സർവീസ് എന്നിങ്ങനെ വ്യത്യസ്ത സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു രണ്ടാമത്തേത് വിഷ്വലൈസേഷൻ വശമാണ് അത് ഡാറ്റ സ്വീകരിക്കുന്നതും ഡാറ്റ വായിക്കുന്നതും ഡാറ്റ വ്യാഖ്യാനിക്കുന്നതും മറ്റും തുടർന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ വാണ്ട് ബിഗ് ഡാറ്റ മെഷീൻ ലേണിംഗ് അധിഷ്ഠിത അനലിറ്റിക്സ് എന്നിവയുടെ വ്യത്യസ്ത അനലിറ്റിക്കൽ രീതിയുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള വിശകലനം വരുന്നു അവസാനമായി വ്യാവസായിക പ്രക്രിയകളുടെ വ്യത്യസ്ത പ്രാപ്തികരങ്ങളായ സ്മാർട്ട് ഒബ്ജക്റ്റുകളുടെ സഹകരണത്തെക്കുറിച്ചുള്ള വിർച്ച്വലൈസേഷൻ ഇപ്പോൾ നമുക്ക് ഇൻഡസ്ട്രി 4 0 ലെ വ്യാവസായിക പ്രക്രിയകളുടെ വ്യത്യസ്ത വശങ്ങൾ ഒന്നൊന്നായി നോക്കാം അതിനാൽ ആദ്യത്തേത് പ്രവർത്തനക്ഷമതയോടെ ആരംഭിക്കും അതിനാൽ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തേണ്ടതുണ്ട് വ്യാവസായിക പ്രക്രിയകളിൽ ഇൻഡസ്ട്രി 4 0 എന്നതിനായുള്ള ഇൻഡസ്ട്രിയൽ ഐഒടി സംയോജിപ്പിക്കുന്നതോടെ ഇത് മെച്ചപ്പെടും അതിനാൽ ഇത്തരത്തിലുള്ള പരിവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ മെച്ചപ്പെട്ട വിഭവ വിനിയോഗം ഞങ്ങൾ കൈവരിക്കാൻ പോകുന്നു എന്നതാണ് അതിനാൽ ഈ വ്യത്യസ്ത വിഭവങ്ങൾ യന്ത്രങ്ങൾ ഇൻഡസ്ട്രി 4 0 ലോകത്ത് ഈ വിഭവങ്ങളുടെ വിനിയോഗം മെച്ചപ്പെടുത്താൻ പോകുന്നു രണ്ടാമതായി ഇൻഡസ്ട്രി 4 0 ലെ വ്യാവസായിക പ്രക്രിയകളുടെ ഉപയോഗത്തിലൂടെ മൊത്തത്തിലുള്ള ഉൽപ്പാദനക്ഷമത വർധിപ്പിക്കാൻ പോകുന്നു വ്യാവസായിക പ്രക്രിയകളിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുകയും ചെലവ് കുറയ്ക്കുകയും ചെയ്യും സ്മാർട്ട് വാട്ടർ മാനേജ്മെന്റിനുള്ള തേംസ് വാട്ടറാണ് ഞാൻ പരിഹാരമായി ഉപയോഗിച്ച വിവിധ വ്യവസായങ്ങളുടെ ഉദാഹരണങ്ങളിൽ ചിലത് എണ്ണ വാതക വ്യവസായ പരിപാലനത്തിനായുള്ള അപ്പാച്ചെ ഐഐഒടിയുടെ സംയോജനത്തിന്റെ കാര്യത്തിൽ അവർക്കുണ്ടായ വ്യത്യസ്തമായ കണ്ടുപിടുത്തങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ മുൻപിൽ പരാമർശിക്കുന്നു അതിനാൽ ഇവ അടിസ്ഥാനപരമായി അവ ആരംഭിക്കുന്നത് സെൻസർ അധിഷ്ഠിത ഉപകരണ നിരീക്ഷണത്തിൽ നിന്നാണ് സ്റ്റാറ്റസ് മോണിറ്ററിംഗ് പരാജയങ്ങൾ കണ്ടെത്തൽ ഗുരുതരമായ അവസ്ഥ നിരീക്ഷണം ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ അവസ്ഥകളോടുള്ള ചലനാത്മക പ്രതികരണം ഇത് സംഭവിക്കാം എണ്ണ വാതക വ്യവസായ പരിപാലനത്തിനായി തേംസ് വാട്ടർ ബൈ അപ്പാച്ചെ പോലുള്ള വ്യത്യസ്ത വ്യവസായങ്ങളെല്ലാം വികസിപ്പിച്ചെടുത്ത സ്മാർട്ട് സിസ്റ്റങ്ങൾ അതിനാൽ ഇത് മോണിറ്ററിംഗ് സ്റ്റാറ്റസ് മോണിറ്ററിംഗ് പരാജയം കണ്ടെത്തൽ ഗുരുതരമായ അവസ്ഥ നിരീക്ഷണം ഗുരുതരമായ അവസ്ഥകളോടുള്ള ചലനാത്മക പ്രതികരണം എന്നിവയിൽ നിന്ന് ആരംഭിക്കും ഉൽപ്പന്ന നവീകരണം നേട്ടങ്ങൾ സേവന അധിഷ്ഠിത വിന്യാസം ഡാറ്റ മോണിറ്റൈസേഷൻ വലിയ അളവിലുള്ള ഡാറ്റ വീണ്ടെടുക്കാൻ പോകുന്ന ഈ എല്ലാ ഡാറ്റയും ഇവ വളരെ വിഭവസമൃദ്ധമാണ് അതിനാൽ ഡാറ്റ ഉപയോഗിക്കാം അത് ധനസമ്പാദനം നടത്താം ഫോക്സ്വാഗൺ പോലുള്ള കമ്പനികൾ ഇതിനകം തന്നെ ഇതിന്റെ പ്രയോജനം നേടിയിട്ടുണ്ട് അതിനാൽ അവർ വർദ്ധിപ്പിച്ച അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു അവിടെ അവർ സാങ്കേതികവിദ്യയുടെ ഉപയോഗത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഓഗ്മെന്റഡ് റിയാലിറ്റി സ്മാർട്ട് സെൻസറുകൾ ഈ മെഷീനറികളിലെ വ്യത്യസ്ത പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത് മെച്ചപ്പെടുത്തുന്നതിനും വ്യത്യസ്തമായ വിശകലനത്തിനും രോഗനിർണയത്തിനും വേണ്ടിയാണ് ഈ വ്യത്യസ്ത യന്ത്രങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന പിഴവുകൾ അതിനാൽ ഇത്തരത്തിലുള്ള പരിവർത്തനങ്ങളിലൂടെ ഉൽപ്പന്ന നവീകരണം സംഭവിക്കാൻ പോകുന്നു ഫോക്സ്വാഗൺ അല്ലെങ്കിൽ ഓഗ്മെന്റഡ് മെയിന്റനൻസ് അത്തരം ഉൽപ്പന്ന നവീകരണത്തിന്റെ ഒരു ഉദാഹരണമാണ് മൂന്നാമത്തേത് മെച്ചപ്പെടുത്തിയ ആവാസവ്യവസ്ഥയാണ് നമുക്ക് ഒരു കണക്റ്റഡ് ഇക്കോസിസ്റ്റം ഉണ്ടാകാൻ പോകുന്നു അവിടെ നൂതനമായ ഉൽപ്പന്ന ലൈനുകൾ ഉണ്ടാകാൻ പോകുന്നു ചലനാത്മക വിപണിയെ പിന്തുണയ്ക്കുന്നു ഒപ്പം ഓരോ ഫലത്തിനും പ്രതിഫലം നൽകുന്ന തരത്തിലുള്ള ഇക്കോസിസ്റ്റം ഉണ്ടാകാൻ പോകുന്നു അതിനാൽ ഓരോ ഫലത്തിനും പണം നൽകുക എന്നതിനർത്ഥം ഉപയോക്താക്കൾ നിർമ്മിക്കാൻ പോകുന്ന ഫലത്തെ അടിസ്ഥാനമാക്കിയാണ് കൂടാതെ അവർക്ക് ലഭിക്കാൻ പോകുന്ന ഫലത്തിന് അവർ പണം നൽകണം കമ്പനി ജനറൽ ഇലക്ട്രിക് പോലെയാണ് അവർ കണ്ടുപിടിച്ചതാണ് പുനരുപയോഗ ഊർജ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു പിന്നീട് മറ്റൊരു കമ്പനിയായ റോൾസ് റോയ്സ് എയർക്രാഫ്റ്റ് എഞ്ചിനുകളിൽ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു ഇതും അവർ നിരവധി വ്യത്യസ്ത സംവിധാനങ്ങളിലൂടെ നേടിയെടുത്തിട്ടുണ്ട് ഇവയാണ് ഓരോന്നിനും നൽകിയിരിക്കുന്ന വ്യത്യസ്ത സവിശേഷതകൾ അതിനാൽ ഞാൻ അവ ഇവിടെ വ്യക്തമായി പരാമർശിക്കാൻ പോകുന്നില്ല എന്നാൽ അടിസ്ഥാനപരമായി വ്യത്യസ്ത വിമാനങ്ങൾക്കായി എഞ്ചിനുകൾ വിതരണം ചെയ്യുന്ന ജനറൽ ഇലക്ട്രിക് റോൾസ് റോയ്സ് തുടങ്ങിയ ഈ കമ്പനികൾ നിർമ്മിക്കുന്ന ഓരോ സിസ്റ്റത്തിന്റെയും വ്യത്യസ്ത സവിശേഷതകൾ ഇവയാണ് പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ ഇവിടെയും നിങ്ങൾക്ക് സെൻസർ അധിഷ്ഠിത നിരീക്ഷണം പ്രവചന അറ്റകുറ്റപ്പണികൾ എന്നിവയുണ്ട് പിന്നെ മൊത്തത്തിലുള്ള പരിചരണം അടിസ്ഥാനപരമായി പ്രോഗ്രാമാണ് ഇത് റോൾസ് റോയ്സിലെ ഈ എഞ്ചിൻ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു അതിനാൽ അവരുടെ വ്യാവസായിക പ്രക്രിയകളിൽ IoT സംയോജിപ്പിച്ച് അവർ നേടിയെടുത്ത ചില കാര്യങ്ങളുണ്ട് അടുത്തത് സ്വയംഭരണ പുൾ സമ്പദ് വ്യവസ്ഥയാണ് എൻഡ് ടു എൻഡ് ഓട്ടോമേഷൻ സൌകര്യം പുതുക്കിയ ഡിമാൻഡ് വിവരങ്ങൾ കുറഞ്ഞ മാലിന്യ ഉൽപ്പാദനം മൊത്തത്തിൽ കുറഞ്ഞ മാലിന്യ കാൽപ്പാടുകൾ ഇത് വളരെ പ്രധാനമാണ് കുറഞ്ഞ മാലിന്യ കാൽപ്പാടുകൾ മികച്ച റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ എന്നിവയാണ് ഇവിടെ പ്രയോജനങ്ങൾ അതിനാൽ കമ്പനി ജനറൽ ഇലക്ട്രിക് അവർ അവരുടെ ഫാക്ടറി മെയിന്റനൻസ് സിസ്റ്റവുമായി വന്നിരിക്കുന്നു ഇത് അടിസ്ഥാനപരമായി ഈ സവിശേഷതകൾ IIoT സംയോജിപ്പിക്കുന്നതിലൂടെ കൈവരിക്കുന്നു അവർ പ്രീഡിക്സ് പ്ലാറ്റ്ഫോം എന്ന പ്ലാറ്റ്ഫോം കൊണ്ടുവന്നു ക്ലൌഡ് അധിഷ്ഠിത സേവനങ്ങൾ വാഗ്ദാനം ചെയ്യാൻ അവർ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു ഈ പ്രത്യേക പ്ലാറ്റ്ഫോമിൽ അവർക്ക് പേ പെർ യൂസ് പ്രൈസിംഗ് മോഡൽ ഉണ്ട് ഫാക്ടറി മെയിന്റനൻസ് അനലിറ്റിക്കൽ സേവനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് അവർക്ക് സുരക്ഷിതവും അനുയോജ്യവുമായ അന്തരീക്ഷമുണ്ട് അത് സേവന ഒപ്റ്റിമൈസേഷനെ സഹായിക്കുന്നു ഫാക്ടറി മെയിന്റനൻസ് സിസ്റ്റത്തിന്റെ വ്യത്യസ്ത സവിശേഷതകൾ ഇവയാണ് ജനറൽ ഇലക്ട്രിക് അതായത് സിസ്റ്റം അതിനാൽ അടിസ്ഥാനപരമായി നമ്മൾ ഭാവിയിലേക്ക് മാറുകയാണ് അവിടെ നമുക്ക് സ്മാർട്ട് ഫാക്ടറികൾ ഉണ്ടാകാൻ പോകുന്നു സ്മാർട്ട് ഫാക്ടറികൾക്കായുള്ള വ്യത്യസ്ത ആപ്ലിക്കേഷൻ മേഖലകൾ സ്മാർട്ട് ഫെസിലിറ്റി മാനേജ്മെന്റ് കണക്റ്റഡ് ഫാക്ടറി ഇൻവെന്ററി മാനേജ്മെന്റ് അതിനാൽ അടിസ്ഥാനപരമായി സ്മാർട്ട് ഇൻവെന്ററി മാനേജ്മെന്റ് സ്മാർട്ട് പ്രൊഡക്ഷൻ ലൈൻ മാനേജ്മെന്റ് സ്മാർട്ട് പ്രോസസ്സ് സുരക്ഷയും സുരക്ഷയും സ്മാർട്ട് സേവന ഗുണനിലവാര നിയന്ത്രണം സ്മാർട്ട് സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷൻ സ്മാർട്ട് പാക്കേജിംഗ് എന്നിവയാണ് മാനേജ്മെന്റും IoT യുടെ സംയോജനത്തിന്റെ വ്യത്യസ്ത പ്രയോഗങ്ങളാണിവ ഇൻഡസ്ട്രി 4 0 സാഹചര്യത്തിൽ IIoT അടിസ്ഥാനമാക്കിയുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള വ്യത്യസ്ത വ്യാവസായിക പ്രക്രിയകൾ വ്യാവസായിക പ്രക്രിയകൾ അതിനാൽ ഇവ ഫെസിലിറ്റി മാനേജ്മെന്റ് പോലെയുള്ളവയാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് സെൻസർ സജ്ജീകരിച്ച നിർമ്മാണ സൌകര്യത്തെക്കുറിച്ചാണ് വ്യവസ്ഥാധിഷ്ഠിത നിരീക്ഷണം മെഷീൻ ഹെൽത്ത് നിരീക്ഷിക്കൽ ഒപ്റ്റിമൈസേഷൻ റിമോട്ട് ഫംഗ്ഷൻ കൺട്രോൾ കാര്യക്ഷമത മെച്ചപ്പെടുത്തൽ ചെലവ് കുറയ്ക്കൽ ഊർജ്ജ ചെലവ് എന്നിവയ്ക്ക് വ്യവസ്ഥയുണ്ട് കണക്റ്റഡ് ഫാക്ടറി ഇവിടെ നമ്മൾ ഫാക്ടറിയുടെ കണക്റ്റുചെയ്ത ഘടകങ്ങളായ മെഷിനറി ഘടകങ്ങൾ പോലെയാണ് സംസാരിക്കുന്നത് എഞ്ചിനീയർമാരും നിർമ്മാതാക്കളെ ബന്ധിപ്പിക്കും അതിനാൽ ഇത് യന്ത്രസാമഗ്രികൾ മാത്രമല്ല എഞ്ചിനീയർമാർ നിർമ്മാതാക്കൾ യന്ത്രങ്ങൾ എല്ലാം ഒരുമിച്ച് ഒരു സ്മാർട്ട് ഫാക്ടറിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഓട്ടോമേഷനും ഒപ്റ്റിമൈസേഷനും പ്രവർത്തനക്ഷമമാക്കൽ റിമോട്ട് കൺട്രോളും മാനേജ്മെന്റും കമാൻഡും നിയന്ത്രണവും എളുപ്പമാക്കുക കെആർഎകൾ തിരിച്ചറിയുന്നതിനുള്ള സൌകര്യം എന്നിവയാണ് പ്രധാന ഫല മേഖലകൾ ഇൻവെന്ററി മാനേജ്മെന്റ് വിതരണ ശൃംഖലയിലെ ഇവന്റുകൾ നിരീക്ഷിച്ച് ഇനങ്ങൾ ട്രാക്കുചെയ്യുന്നതിനെക്കുറിച്ച് ഇത് സംസാരിക്കുന്നു തത്സമയം ആഗോള ഇന്റർ കണക്ടിവിറ്റി സൌകര്യങ്ങളും തത്സമയ അപ്ഡേറ്റുകളും നൽകുന്നു ഉയർന്ന ദൃശ്യപരതയും സുതാര്യതയും ഉപഭോക്താക്കൾക്ക് യാഥാർത്ഥ്യബോധമുള്ളതും പരാജയപ്പെടാത്തതുമായ എസ്റ്റിമേറ്റ് സപ്ലൈ ഒപ്റ്റിമൈസേഷൻ ചെലവ് കുറയ്ക്കൽ പ്രൊഡക്ഷൻ ലൈൻ മാനേജ്മെന്റ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് വ്യത്യസ്ത സെൻസറുകളും ആക്യുവേറ്ററുകളും ഉള്ള എൻഡ് ടു എൻഡ് പ്രൊഡക്ഷൻ ലൈൻ മാനേജ്മെന്റിനെക്കുറിച്ചാണ് മുഴുവൻ ഉൽപ്പന്ന നിരയും ഓട്ടോമേറ്റ് ചെയ്യുന്നു തുടർന്ന് പ്രക്രിയ പുനഃക്രമീകരിക്കാനുള്ള സൌകര്യം ഉൽപ്പാദന കാലതാമസത്തെയും പരാജയങ്ങളെയും കുറിച്ചുള്ള വിശദമായ ധാരണ പ്രോസസ്സ് ഫ്ലോ അനലിറ്റിക്സ് പ്രോസസ്സ് സുരക്ഷയും സുരക്ഷയും ഇവിടെ നമ്മൾ സുരക്ഷിതവും സുരക്ഷിതവുമായ തൊഴിൽ അന്തരീക്ഷത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സുരക്ഷിതവും സുരക്ഷിതവുമായ പ്രക്രിയകൾ സുരക്ഷിതവും സുരക്ഷിതവുമായ അന്തരീക്ഷം ഇവയെല്ലാം ഈ വ്യത്യസ്ത IoT ഉപകരണങ്ങളുടെ ഈ വ്യത്യസ്ത സെൻസർ ആക്യുവേറ്ററുകളുടെ സഹായത്തോടെ നിർവഹിക്കാൻ പോകുന്നു ഈ വ്യത്യസ്ത IoT ഉപകരണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റയെ അടിസ്ഥാനമാക്കി ഞങ്ങൾക്ക് പൂർണ്ണമായ റെക്കോർഡ് ലഭിക്കാൻ പോകുന്നു സാമ്പത്തിക ആസൂത്രണം ഒപ്റ്റിമൈസ് ചെയ്ത സാമ്പത്തിക ആസൂത്രണം ഇൻഷുറൻസ് ഉപയോഗിക്കേണ്ട ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ചുള്ള ആസൂത്രണം എന്നിവയിൽ ഇത് സഹായിക്കും സേവന ഗുണനിലവാര നിയന്ത്രണം മറ്റൊന്നാണ് ഇത് ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരമുള്ള ജീവിത ചക്രം നിരീക്ഷിക്കൽ ഉൽപ്പന്ന ജീവിത ചക്രത്തിന്റെ ഗുണനിലവാരം നിരീക്ഷിക്കൽ സംഭരിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഫാക്ടറി പരിസ്ഥിതി നിരീക്ഷണവും ഓട്ടോമേഷനും മാലിന്യ സംസ്കരണം മാലിന്യങ്ങൾ കുറയ്ക്കൽ തുടങ്ങിയവയാണ് മാനേജ്മെന്റ് മൾട്ടി ലെവൽ ഉൽപ്പന്ന ഗുണനിലവാര പരിശോധന ഹോളിസ്റ്റിക് അനലിറ്റിക്സ് ഉപഭോക്താക്കളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് പ്രാപ്തമാക്കൽ അതിനാൽ ഇവയെല്ലാം സേവന നിലവാര വശങ്ങൾ അവയുടെ നിയന്ത്രണം എന്നിവയെല്ലാം സ്മാർട്ട് ഫാക്ടറികളുടെ സഹായത്തോടെ നിർവഹിക്കാൻ പോകുന്നു അടുത്തതായി സപ്ലൈ ചെയിൻ മാനേജ്മെന്റും ഒപ്റ്റിമൈസേഷനും വരുന്നു വിതരണ ശൃംഖലയുടെ തത്സമയ നിരീക്ഷണം ഒന്നിലധികം മാനങ്ങളിലുള്ള ഘടകങ്ങൾ ബന്ധപ്പെട്ട വ്യക്തികൾക്കുള്ള എളുപ്പവും സുതാര്യതയും ഇന്റർ ബ്ലോക്ക് ഡിപൻഡൻസി തിരിച്ചറിയൽ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് സെൻസർ അടിസ്ഥാനമാക്കിയുള്ള പാക്കേജിംഗ് സൌകര്യം തത്സമയ നിരീക്ഷണം ഉപഭോക്താവിന്റെ ഉപയോഗ പാറ്റേണുകളെക്കുറിച്ചുള്ള വിശദമായ വിശകലനം പാക്കേജ് അവസ്ഥ നിരീക്ഷണം സാധ്യമാക്കുന്ന മൾട്ടി പോയിന്റ് ട്രെയ്സ് തുടർച്ചയായ ഉപഭോക്തൃ സംതൃപ്തി കുറഞ്ഞ ചെലവ് എന്നിവയെക്കുറിച്ച് പാക്കേജിംഗ് മാനേജ്മെന്റ് സംസാരിക്കുന്നു അപ്പോൾ മൾട്ടി പോയിന്റ് ട്രെയ്സ് എന്താണ് അർത്ഥമാക്കുന്നത് ഒരു പ്രത്യേക പാക്കേജ് നഷ്ടപ്പെട്ടാൽ അത് എവിടെയാണ് നഷ്ടമായതെന്ന് അടിസ്ഥാനപരമായി കണ്ടെത്തുന്നത് പോലെ അത് തെറ്റായി വെച്ചാൽ മാത്രമല്ല നഷ്ടപ്പെടുന്നത് ഈ ട്രാക്കിംഗും ഒന്നിലധികം പോയിന്റുകളിൽ നിന്ന് ഈ വ്യത്യസ്ത പാക്കേജുകളുടെ ട്രാക്കിംഗും ഒരു സ്മാർട്ട് ഫാക്ടറിയിൽ സാധ്യമാകും ഇത് യഥാർത്ഥത്തിൽ ഒരു സാധാരണ പ്രശ്നമാണ് ഫാക്ടറികളിലെ ട്രെയ്സിംഗും ട്രാക്കിംഗും ഒരു സാധാരണ പ്രശ്നമാണ് കൂടാതെ സ്മാർട്ട് ഫാക്ടറി IIoT ഉപയോഗിക്കുന്നതിലൂടെ വ്യാവസായിക പ്രക്രിയകൾ ഇത്തരത്തിലുള്ള ട്രാക്കിംഗ് കാര്യങ്ങളിൽ സഹായിക്കും അതിനാൽ ഇപ്പോൾ നമുക്ക് വ്യാവസായിക പ്രക്രിയകളുടെ പ്രവർത്തനപരമായ വീക്ഷണം നോക്കാം അതിനാൽ ഫിസിക്കൽ സിസ്റ്റം അപ്പോൾ ഞങ്ങൾക്ക് നിയന്ത്രണമുണ്ട് അത് അടിസ്ഥാനപരമായി സെൻസിംഗിനെയും ആക്ചുവേഷനെയും കുറിച്ച് സംസാരിക്കുന്നു മുകളിൽ ഞങ്ങൾക്ക് ബിസിനസ്സ് പാളിയുണ്ട് അതിനാൽ ഇതിനിടയിൽ ഞങ്ങൾക്ക് പ്രവർത്തനങ്ങളും വിവരങ്ങളും ആപ്ലിക്കേഷനും ഉണ്ട് ഇത് അടിസ്ഥാനപരമായി ഈ മുഴുവൻ മോഡലും വളർത്താൻ സഹായിക്കും അതിനാൽ അടിസ്ഥാനപരമായി ഞങ്ങൾ സംസാരിക്കുന്നത് വ്യാവസായിക പ്രക്രിയകളെക്കുറിച്ചുള്ള ഓഹരി ഉടമകളുടെ ആശങ്കകളും വ്യാവസായിക പ്രക്രിയകളിൽ വിവിധ തരം ഉപയോഗിക്കുന്നതിനുള്ള വഴക്കമുള്ളതും ബാധകവുമായ സംവിധാനത്തെക്കുറിച്ചുമാണ് അതിനാൽ ഇൻഡസ്ട്രി 4 0 ലോകത്തിലെ ഈ വ്യത്യസ്ത പ്രക്രിയകളുടെ വ്യാവസായിക പ്രക്രിയകളുടെ ഇത്തരത്തിലുള്ള ഫങ്ഷണൽ വ്യൂപോയിന്റ് ആർക്കിടെക്ചറിന്റെ സഹായത്തോടെയാണ് ഇവയെല്ലാം നടപ്പിലാക്കാൻ പോകുന്നത് വ്യാവസായിക പ്രക്രിയകളുടെ പ്രവർത്തന ഡൊമെയ്നിൽ നിയന്ത്രണ ഡൊമെയ്ൻ മാനേജ്മെന്റ് വിന്യാസം നിരീക്ഷണം ഡയഗ്നോസ്റ്റിക്സ് പ്രവർത്തനങ്ങൾ ഒപ്റ്റിമൈസേഷൻ എന്നിവ ഉൾപ്പെടുന്നു ഇവ സ്വയം വിശദീകരിക്കുന്നവയാണ് അതിനാൽ ഞാൻ അവയെ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എന്നാൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് IIoT ലോകത്തിലെ ഒരു ക്രോസ് എൻവയോൺമെന്റ് ഇന്റർകണക്ടഡ് സിസ്റ്റമാണ് അവിടെയാണ് ഈ പരസ്പരബന്ധിതമായ നിയന്ത്രണ സംവിധാനം വളരെ പ്രധാനപ്പെട്ട പരസ്പരബന്ധിതമായ നിയന്ത്രണ സംവിധാനവും അതിനാൽ ഞങ്ങൾ ഇവിടെയുണ്ട് കാരണം അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ സംസാരിക്കുന്നത് ഇൻട്രാ ഫാക്ടറി കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല ഇന്റർ ഫാക്ടറി കമ്മ്യൂണിക്കേഷനും ആണ് ഇന്റർ ഇൻട്രാ ഫാക്ടറി കമ്മ്യൂണിക്കേഷനിൽ നിന്നുള്ള ഈ ഡാറ്റയെല്ലാം അവ വിശകലനം ചെയ്യേണ്ടതുണ്ട് കൂടാതെ സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികളുടെയും മറ്റ് വ്യത്യസ്ത മെഷീൻ ലേണിംഗ് AI ടെക്നിക്കുകളുടെയും സഹായത്തോടെ വ്യത്യസ്ത തരം അനലിറ്റിക്സ് നടപ്പിലാക്കേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ റഫറൻസുകളിലേക്ക് പോകുന്നതിന് മുമ്പ് വ്യാവസായിക പ്രക്രിയകളിൽ IIOT സംയോജിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കാൻ ഞാൻ അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും കാണിക്കാൻ ആഗ്രഹിച്ചു അതിനാൽ ഞങ്ങൾ എന്തുചെയ്യാൻ ആഗ്രഹിക്കുന്നു വ്യാവസായിക പ്രക്രിയകൾ മെച്ചപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതാണ് മൊത്തത്തിലുള്ള ലക്ഷ്യം അതിനാൽ വ്യാവസായിക പ്രക്രിയകൾ വ്യത്യസ്ത വ്യാവസായിക ആവശ്യകതകളെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു വ്യത്യസ്ത വ്യവസായങ്ങൾക്ക് അവരുടേതായ പ്രക്രിയകളുണ്ട് അതിനാൽ വ്യാവസായിക പ്രക്രിയകൾ വ്യത്യസ്തമാണ് അതിനാൽ നമുക്ക് ഒരു കാർ നിർമ്മാണ പ്രക്രിയയുടെ ഉദാഹരണം എടുക്കാം കാർ നിർമ്മാണ പ്രക്രിയ അതിനാൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ശരീരവും അസംബ്ലിയും ബോഡിയും അസംബ്ലിയും ഒരു ഉദാഹരണം പറയാം അതിനുശേഷം നമുക്ക് മെറ്റൽ നുരയെ പോലെയുള്ള എന്തെങ്കിലും ഉണ്ടാകും ഇത് ഒരു കാർ നിർമ്മാണ പ്ലാന്റിലെ ഒരു സാധാരണ പരമ്പരാഗത പ്രക്രിയയാണ് പിന്നെ ഇ കോട്ട് ഒരു പാളി പോലെ എന്തെങ്കിലും ഇ കോട്ട് കഴുകുക പിന്നെ പെയിന്റിംഗ് പൂർണ്ണമായ പെയിന്റിംഗ് ഈ വ്യത്യസ്ത യന്ത്രങ്ങളുടെ വിവിധ ഭാഗങ്ങൾ അങ്ങനെ അങ്ങനെ സമാന്തരമായി മെറ്റൽ വർക്കുകൾ ഉണ്ടാകും അവയുടെ ഭാഗങ്ങൾ കഴുകണം അസംബ്ലിയും പരിശോധനയും ആവശ്യമാണ് ഇവയെല്ലാം ഒരുമിച്ചതിന് ശേഷം ഈ വരിയും ഈ വരിയും ഒരുമിച്ച് നിങ്ങൾക്ക് അന്തിമ അസംബ്ലി നൽകും അതിനാൽ ഞങ്ങൾ അർത്ഥമാക്കുന്നത് ഈ പ്രക്രിയകളാണ് അവ സമാന്തരമായി നടപ്പിലാക്കാൻ പോകുന്നു ഒരുമിച്ച് അന്തിമ അസംബ്ലിയിൽ പ്രവേശിക്കും അവസാന അസംബ്ലിക്ക് ശേഷം അത് ഷിപ്പിംഗ് ആയിരിക്കും അതിനാൽ ഇത് ഒരു പരമ്പരാഗത തരത്തിലുള്ള കാർ നിർമ്മാണ വ്യവസായത്തിലെ വ്യാവസായിക പ്രക്രിയയുടെ ഒരു പരമ്പരാഗത വ്യാവസായിക പ്രക്രിയയുടെ വളരെ വിശാലമായ ഉയർന്ന തലത്തിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഇതിനെ സ്മാർട്ടാക്കണമെന്ന് നോക്കാം IIoT സംയോജിപ്പിച്ച് അതിനെ സ്മാർട്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ വ്യത്യസ്ത IIoT ഘടകങ്ങൾ ഉപയോഗിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ക്ഷമിക്കണം മെച്ചപ്പെട്ട വ്യാവസായിക പ്രക്രിയകൾക്കായി ഈ IoT ഘടകങ്ങളിൽ മികച്ച കാര്യക്ഷമതയും മാനേജ്മെന്റും ഉണ്ടായിരിക്കും ഉൽപ്പന്ന ഉൽപ്പാദനം മെച്ചപ്പെടാൻ പോകുന്നു കൂടാതെ ഞങ്ങൾ ചെയ്യുന്ന ഈ വ്യത്യസ്ത സവിശേഷതകളെല്ലാം ഈ പ്രഭാഷണത്തിൽ നേരത്തെ സംസാരിച്ചിരുന്നു അതിനാൽ അത് ഉണ്ടാകും അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇവയാണ് നിങ്ങൾക്ക് ഇവിടെ സെൻസറുകളും ആക്യുവേറ്ററുകളും ടേബിൾ സെൻസറുകൾ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇവിടെ വ്യത്യസ്ത സെൻസറുകളും ആക്യുവേറ്ററുകളും ഉപയോഗിക്കാം ഈ വ്യത്യസ്ത സംക്രമണങ്ങളിൽ മാത്രമല്ല ഈ വ്യത്യസ്ത ഘട്ടങ്ങളിലും അതിനാൽ നിങ്ങൾക്ക് ഉടനീളം അനുയോജ്യമായ സെൻസറുകളും ആക്യുവേറ്ററുകളും ഉപയോഗിക്കാം അതിനാൽ ഇത് തുടർച്ചയായി നിരീക്ഷിക്കുകയും ആവശ്യമായേക്കാവുന്ന ഏത് തരത്തിലുള്ള പ്രവർത്തനവും ചെയ്യുകയും ചെയ്യും അതിനാൽ സെൻസറുകളും ആക്യുവേറ്ററുകളും ഈ വ്യത്യസ്ത യൂണിറ്റുകളുടെയും വിവിധ ഘട്ടങ്ങളുടെയും തുടർച്ചയായ നിരീക്ഷണം നടത്തും അതുപോലെ ഇവിടെയും നിങ്ങൾക്ക് ഇവയെല്ലാം ലഭിക്കാൻ പോകുന്നു അതിനാൽ ഇവ ഔട്ട്സോഴ്സ് ചെയ്തതാണെന്ന് നമുക്ക് പറയാം അവർ ഔട്ട്സോഴ്സ് ചെയ്തേക്കാം അല്ലെങ്കിൽ അവർ ഔട്ട്സോഴ്സിംഗ് അല്ലായിരിക്കാം അതിനാൽ അവ ഔട്ട്സോഴ്സ് ഘടകമാണെങ്കിലും ഈ വ്യത്യസ്ത സെൻസറുകളുടെയും ആക്യുവേറ്ററുകളുടെയും മറ്റ് വ്യത്യസ്ത മോണിറ്ററിംഗ് യൂണിറ്റുകളുടെയും സഹായത്തോടെ നിങ്ങൾക്ക് അവസാനം മുതൽ അവസാനം വരെ ഈ തുടർച്ചയായ നിരീക്ഷണം നടത്താൻ കഴിയും ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ സെൻസറുകളും ആക്യുവേറ്ററുകളും ധാരാളം ഡാറ്റ എറിയാൻ പോകുന്നു ഈ ഡാറ്റയിൽ നിന്ന് നിങ്ങൾക്ക് വ്യത്യസ്ത അനലിറ്റിക്സ് പ്രവർത്തിപ്പിക്കാൻ കഴിയും ഈ അനലിറ്റിക്സ് വ്യത്യസ്ത സെർവർ സെർവർ ഫോമുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ പ്രവർത്തിപ്പിക്കാം അല്ലെങ്കിൽ ആധുനിക കാലത്ത് ഈ അനലിറ്റിക്സിനായി നമുക്ക് ക്ലൌഡ് അധിഷ്ഠിത സേവനങ്ങൾ ഉപയോഗിക്കാം അതിനാൽ നമുക്ക് ക്ലൌഡ് അധിഷ്ഠിത അനലിറ്റിക്സ് ഉപയോഗിക്കാം അതിനാൽ നമുക്ക് ക്ലൌഡ് ഉപയോഗിക്കാം ഭാവിയിലെ ഉൽപ്പാദന നിരക്ക് ഉൽപ്പാദന നിരക്ക് എന്നിവയെക്കുറിച്ചുള്ള ഉൽപ്പാദന പ്രവചനങ്ങൾ പറയട്ടെ പരാജയങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നടത്താം തൊഴിലാളികളുടെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് പ്രവചനങ്ങൾ നടത്താം കൂടാതെ ഈ വ്യത്യസ്ത യന്ത്രങ്ങളുടെ വ്യത്യസ്ത ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കാനും കഴിയും അതിനാൽ അടിസ്ഥാനപരമായി ഞങ്ങൾ ചെയ്യുന്നത് IIoT ഉപയോഗിച്ചുള്ള ഒരു സാധാരണ കാർ നിർമ്മാണത്തിൽ IIoT ഉപയോഗിക്കുന്നതിന്റെ ഉദാഹരണമാണ് അതിനാൽ മുമ്പത്തേത് സെൻസറുകൾ ആക്യുവേറ്ററുകൾ ഒരു തരത്തിലുള്ള കമ്പ്യൂട്ടേഷണൽ സൌകര്യം ക്ലൌഡ് അനലിറ്റിക്സ് ഒന്നുമില്ല ചിലത് നിങ്ങൾ ഇൻഡസ്ട്രി 3 0 നെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ചില വ്യക്തിഗത ഘടകങ്ങൾ വെവ്വേറെ കമ്പ്യൂട്ടറുകൾ വെവ്വേറെ ഉപയോഗിക്കുന്നുണ്ടാകാം എന്നാൽ ഇൻഡസ്ട്രി 4 0 ൽ നമ്മൾ സംസാരിക്കുന്നത് ഈ ഹോളിസ്റ്റിക് കണക്റ്റിവിറ്റിയെക്കുറിച്ചാണ് കൂടാതെ ഈ വ്യത്യസ്ത വ്യാവസായിക പ്രക്രിയകളുടെ സമഗ്രമായ നിരീക്ഷണം ധാരാളം പ്രവചനങ്ങൾ സിസ്റ്റങ്ങളുടെ സ്വയംഭരണ സ്വഭാവം സ്വയംഭരണ നിരീക്ഷണം പരിപാലനം പ്രവചനം എല്ലാം അതിനാൽ ഉൽപ്പാദനക്ഷമത കാര്യക്ഷമത സുരക്ഷ എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് നിലവിലുള്ള വ്യാവസായിക പ്രക്രിയകളെ എങ്ങനെ രൂപാന്തരപ്പെടുത്താനും മെച്ചപ്പെടുത്താനും IIoT ക്ക് കഴിയും എന്നതിന്റെ ഉദാഹരണമാണിത് ഇപ്പോൾ നമുക്ക് തിരികെ പോയി നമ്മൾ സംസാരിച്ച വ്യത്യാസങ്ങൾ നോക്കാം ഇവ വ്യത്യസ്ത റഫറൻസുകളുടെ പട്ടികയാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ വ്യാവസായിക പ്രക്രിയകളെക്കുറിച്ചും അതിന്റെ വ്യത്യസ്ത വശങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ ഈ പരാമർശങ്ങളിൽ ചിലത് പരിശോധിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ പ്രത്യേക പ്രഭാഷണത്തിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചത് കാർ നിർമ്മാണം പക്ഷേ മറ്റ് വ്യാവസായിക പ്രക്രിയകൾ പരിശോധിക്കാനും ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രത്യേകിച്ചും നിങ്ങൾ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കാർ നിർമ്മാണം പോലെയുള്ള ഒരു പ്രത്യേക വ്യവസായ മേഖലയിൽ നിന്നുള്ളവരാണ് വ്യാവസായിക മേഖലകളിൽ നിന്ന് വരാം നമുക്ക് സ്റ്റീൽ പ്ലാന്റുകൾ അല്ലെങ്കിൽ ഭക്ഷ്യ സംസ്കരണ വ്യവസായം അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം എന്ന് പറയാം IoT സംയോജിപ്പിച്ച് വ്യവസായ 4 0 ന്റെ പ്രതീക്ഷകൾക്കും ലക്ഷ്യങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങളുടെ വ്യവസായങ്ങളിൽ നിലവിലുള്ള പ്രക്രിയകളെ കൂടുതൽ ആധുനിക കാര്യക്ഷമതയുള്ള രീതിയിൽ എങ്ങനെ മാറ്റാമെന്നും നിങ്ങൾക്ക് ചിന്തിക്കാം